ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻപിടിഇഎൽ മൂക്കിന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ആഴ്ച 8 മൊഡ്യൂൾ 3 പ്രഭാഷണ നമ്പർ 45 ആണ് മുമ്പത്തെ മൊഡ്യൂളിലെന്നപോലെ ഈ മൊഡ്യൂളിലും ഞാൻ അവതരണ വൈദഗ്ധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തുടരും ഈ മൊഡ്യൂളിൽ ഞാൻ പ്രത്യേകിച്ച് ശരീരഭാഷയുടെ പങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ദ്രുത അവലോകനം നടത്താം മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വീണ്ടെടുക്കാം മുൻ പ്രഭാഷണത്തിൽ ഒരു പ്രൊഫഷണൽ ഓറൽ അവതാരകനോ പൊതു പ്രഭാഷകനോ ആകുന്നതിന് ഞാൻ നിങ്ങൾക്ക് ധാരാളം നുറുങ്ങുകൾ നൽകി ഒരു പ്രൊഫഷണൽ ആകുന്നതിന് നിങ്ങൾ ചില പ്രധാന കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവ എന്തൊക്കെയാണ് സമയത്തിന് മുമ്പ് നിങ്ങൾ വേദിയിൽ പോകുന്ന വേദി കാണുക അനുഭവിക്കുക വേദിയെ പരിചയപ്പെടുക കാഴ്ചക്കാരനെ സ്വാഗതം ചെയ്യുക പ്രേക്ഷകരെ തിരിച്ചറിയുക അവരെ അഭിവാദ്യം ചെയ്യുക അവരുമായി സംസാരിക്കുക സംസാരിക്കുന്നതിന് മുമ്പുതന്നെ നിങ്ങൾക്ക് ഒരുതരം ഊഷ്മളത അനുഭവപ്പെടുകയും അവരുമായി ബന്ധം നിലനിർത്തുകയും നിങ്ങളുടെ മെറ്റീരിയലിൽ പ്രാവീണ്യം നേടുകയും ചെയ്യുന്നതിനാൽ ഏറ്റവും ഫലപ്രദമായ അവതരണം നൽകുന്നതിന് കുറുക്കുവഴികളില്ല നിങ്ങൾക്ക് പ്രസംഗത്തിൽ സമഗ്രതയില്ലെങ്കിൽ തയ്യാറെടുപ്പിനായി സമയം എടുക്കുന്നില്ലെങ്കിൽ പോയി പ്രസംഗം നടത്തരുത് നിങ്ങളുടെ മെറ്റീരിയലിൽ പ്രാവീണ്യം നേടുക പ്രാവീണ്യം നേടാതെ പ്രഭാഷണത്തിന് പോകരുത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എല്ലാ ശ്വസന വ്യായാമങ്ങളും സാങ്കേതികവിദ്യകളും ഉപയോഗിക്കുക എന്നാൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തവും ശാന്തവുമാക്കുക സംസാരിക്കുന്നത് സ്വയം ദൃശ്യവൽക്കരിക്കുകയും ഏറ്റവും ജനപ്രിയമായ പ്രസംഗം നടത്തുന്നതും തുടർന്ന് പ്രേക്ഷകരിൽ നിന്ന് കൈയടി നേടുന്നതും സ്വയം ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുക ആളുകൾക്ക് വിജയിക്കുന്ന ഒരു നേതാവിനെ വേണമെന്ന് മനസിലാക്കുക അതിനാൽ മൂലയിലുള്ള ആരെങ്കിലും നിങ്ങളോട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുകയാണെങ്കിൽ പരിഭ്രാന്തരാകരുത് നിങ്ങൾ ഉത്തരം നൽകണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നതിനാൽ തയ്യാറായിരിക്കുക ഗ്രൂപ്പിൽ നിന്നുള്ള ആരെങ്കിലും നിങ്ങളെ പിന്തുണച്ച് ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾ നന്നായി തയ്യാറാണെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾ അവതരണം നൽകുമ്പോൾ ചോദ്യോത്തര സെഷന്റെ അവസാനത്തിൽ പ്രേക്ഷകർക്കായി എന്തെങ്കിലും സൂക്ഷിക്കുക തുടർന്ന് നിങ്ങൾ മുമ്പ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത പോയിന്റുകൾ ഉപയോഗിക്കുകയും ചോദ്യോത്തര സെഷനിൽ പ്രേക്ഷകരെ വീണ്ടും ആകർഷിക്കുകയും ചെയ്യുക പക്ഷേ പരിഭ്രാന്തരാകരുത് ആളുകൾ നിങ്ങളെ വിജയിക്കുന്ന നേതാവാകാൻ ആഗ്രഹിക്കുന്നു പ്രേക്ഷകരിലൊരാൾ നിങ്ങളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റ് കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യില്ല ക്ഷമ ചോദിക്കുന്നത് ഒഴിവാക്കുക തുടക്കത്തിൽ അവസാനം തയ്യാറെടുക്കാത്തതിന് മോശമായി തോന്നിയതിന് നിങ്ങളുടെ പിപിടി ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതിന് ഒരു ഒഴികഴിവ് പോലെയാണെങ്കിലും മാപ്പ് പറയരുത് ക്ഷമിക്കണം എന്ന് പറയരുത് കുറഞ്ഞത് അതിൽ നിന്ന് ആരംഭിക്കരുത് നിങ്ങളുടെ സന്ദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാധ്യമത്തിലല്ല നിങ്ങളുടെ ഉള്ളടക്കം മികച്ചതാണെങ്കിൽ നിങ്ങൾ നന്നായി തയ്യാറാണെങ്കിൽ നിങ്ങൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയിലല്ല ഉള്ളടക്കം എത്ര നന്നായി വിതരണം ചെയ്യാൻ കഴിയും എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ വ്യാകരണപരമായി ശരിയാണോ അല്ലയോ എന്ന് പറയുന്നത് നിങ്ങളുടെ അവതരണത്തെ ദോഷകരമായി ബാധിക്കുമെന്ന വസ്തുതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് പ്രേക്ഷകർ വീണ്ടും പ്രത്യേകിച്ചും പൊതുപ്രസംഗത്തിൽ വിഷമിക്കുന്നില്ല പ്രത്യേകിച്ചും നിങ്ങൾ പ്രസംഗമാധ്യമം ഉപയോഗിക്കുമ്പോൾ അവർ വ്യാകരണ പിശകുകളെക്കുറിച്ചും സ്പെല്ലിംഗ് പിശകുകളെക്കുറിച്ചും അത്ര പ്രത്യേകതയില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ചെറിയ ഉച്ചാരണ പിശകുകൾ അവർ അതിനെക്കുറിച്ച് വിഷമിക്കുന്നില്ല എഴുത്തിൽ അക്ഷരപ്പിശകുകളും മറ്റ് വ്യാകരണ പിശകുകളും വളരെ പ്രകടമാണ് എന്നാൽ സംസാരത്തിൽ ആളുകൾ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് എന്താണ് സന്ദേശം ഈ സംസാരത്തിൽ എനിക്ക് എന്താണ് ഉള്ളത് എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇക്കാരണത്താൽ അത് പോസിറ്റീവ് എനർജിയായി പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് പരിഭ്രാന്തി ഉണ്ടെങ്കിലും നിങ്ങളിലെ അഡ്രിനാലിൻ പമ്പ് ചെയ്യാൻ കുറച്ച് പരിഭ്രാന്തി ആവശ്യമാണ് അതിനാൽ അത് ഉപയോഗിക്കുക അവസാനം ഞാൻ പറഞ്ഞു അനുഭവം നേടുക തുടക്കത്തിൽ ചെറിയ പ്രഭാഷണങ്ങൾ നൽകുന്നതിന് സന്നദ്ധത പ്രകടിപ്പിക്കുക മുന്നോട്ട് പോയി ദൈർഘ്യമേറിയതും ദൈർഘ്യമേറിയതുമായവ നൽകുക തുടർന്ന് ഉപയോഗപ്രദമായ പ്രഭാഷണങ്ങൾ നൽകുന്നതിലും ഫലപ്രദമായ സംസാരം നൽകുന്നതിലും പ്രശസ്തി നേടുക ഒരു പ്രസംഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അനുഭവം നേടുക നിങ്ങൾ വിഭാവനം ചെയ്ത കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുക നിങ്ങൾ ഒരു പ്രഭാഷകനാകും അവർക്ക് സ്റ്റാൻഡിംഗ് ഓവേഷൻ ലഭിക്കും ഇപ്പോൾ പൊതുപ്രസംഗത്തിൻറെ പ്രധാന ലക്ഷ്യങ്ങൾ നാല് പ്രധാന ലക്ഷ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സംസാരം ആസ്വദിക്കുന്നുവെന്ന് പ്രേക്ഷകർക്ക് തോന്നുക അവർ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെന്ന് ബോധവൽക്കരിക്കുക ചിന്തയിലോ എന്തെങ്കിലും ചെയ്യുന്നതിലോ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പ്രകോപിപ്പിക്കുക തുടർന്ന് സ്വാധീനിക്കുക അവരുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുക തുടർന്ന് അവരെ വീണ്ടും നിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുക അതിനാൽ തുടക്കത്തിൽ നിങ്ങളുടെ നിർദ്ദേശത്തിൽ ആരെയെങ്കിലും സ്വാധീനിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ പ്രോജക്റ്റിനായി ഒരു നിശ്ചിത തുക നൽകാൻ നിങ്ങൾ ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുന്നു അതിനാൽ സ്വാധീനം ചെലുത്തുന്നത് നിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും നേടുന്നതിനോ അല്ലെങ്കിൽ ചിന്തിക്കാനും സ്വയം വികസിപ്പിക്കാനും അവരെ സ്വാധീനിക്കുന്നതിനോ ആകാം നിങ്ങളുടെ പ്രസംഗം എങ്ങനെ രൂപപ്പെടുത്താനും അവതരിപ്പിക്കാനും കഴിയും എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചു അതിനാൽ നിങ്ങൾ ശക്തമായി ആരംഭിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചില കഥകളിൽ നിന്ന് ആരംഭിക്കാം ചില ഞെട്ടിക്കുന്ന വസ്തുതകളിൽ നിന്ന് ആരംഭിക്കാം ചില രസകരമായ ഉദ്ധരണികൾ മൂന്നോ നാലോ പ്രധാന പോയിന്റുകൾ മാത്രം ഉണ്ടായിരിക്കാം തുടർന്ന് അവ എങ്ങനെ വിശദീകരിക്കാമെന്നും ആദ്യ പോയിന്റ് വളരെ വ്യക്തമായി പറയാമെന്നും പഠിക്കുക നിങ്ങൾ അവസാനം പറയുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ നിങ്ങൾ പറയുന്നതെന്തും സംഗ്രഹിക്കാൻ ശ്രമിക്കുക അവസാന നിഗമനം യഥാർത്ഥത്തിൽ ഒരു സംഗ്രഹമാണ് തുടർന്ന് നിങ്ങൾക്ക് അവയ്ക്ക് തുടർന്ന് നിങ്ങൾക്ക് അവർക്ക് ശക്തമായ ഫലപ്രദമായ ഉദ്ധരണി നൽകാം അതുവഴി അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ കഴിയും അതിന്റെ അവസാനം നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രസംഗം നടത്തിയതെന്ന് അവരോട് പറയുകയും അത് അവർക്ക് പ്രസക്തമാക്കുകയും പോസിറ്റീവ് കുറിപ്പോടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അത് ഒരു പ്രൊഫഷണൽ ആകുന്നതിനെക്കുറിച്ചാണ് എന്നാൽ ഈ മൊഡ്യൂളിൽ നിങ്ങളെ ഒരു പ്രൊഫഷണൽ പബ്ലിക് സ്പീക്കറാക്കുന്നതിൽ ശരീരഭാഷയുടെ പങ്ക് മനസിലാക്കാം കാരണം ശരീരഭാഷയുടെ ശരീരഭാഷയുടെ പങ്ക് വളരെ പ്രധാനമാണ് നിങ്ങളെ ഏറ്റവും ജനപ്രിയ പൊതു പ്രഭാഷകനാക്കുന്നതിൽ വളരെ നിർണായകമാണ് വാസ്തവത്തിൽ ചില ആളുകൾ ശക്തമായ ദ്രവ്യങ്ങളൊന്നുമില്ലാതെ വരുന്നത് പോലും നിങ്ങൾ കണ്ടിരിക്കാം അതായത് അറിവിന്റെ ഭാഗം വളരെ കുറവാണ് പക്ഷേ ശരീരഭാഷ വളരെ ശക്തവും രസകരവും സ്വാധീനം ചെലുത്തുന്നതുമാണ് അതിനാൽ നിങ്ങൾ അക്ഷരപ്പിശകുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു തുടർന്ന് അവർ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ വിഷമിക്കുന്നില്ല പക്ഷേ അവരുടെ ശരീരഭാഷ നിങ്ങളെ ആകർഷിക്കുന്നു അതിനാൽ ശരീരഭാഷയ്ക്ക് പോലും കുറഞ്ഞ ഉള്ളടക്കത്തിൽ പോലും ആളുകളെ സ്വാധീനിക്കാൻ കഴിയും എന്നാൽ ഒരു പ്രൊഫഷണലാകുന്നതിന് നിങ്ങൾ അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരഭാഷ വികസിപ്പിക്കുക ശരീരഭാഷ എന്നാൽ അതേ സമയം നിങ്ങളുടെ അറിവിൽ നിന്ന് പുറത്തുവരുന്ന മതിയായ നല്ല ഉള്ളടക്കവുമായി പോകുക ഇപ്പോൾ ശരീരഭാഷയുടെ കാര്യത്തിലും അത് പൊതുപ്രസംഗത്തിൽ ഉപയോഗിക്കുന്നതിലും തുടക്കത്തിൽ തന്നെ ഒരു കണ്ണാടിയിൽ സ്വയം ഉറപ്പിക്കുന്നു ഇന്ന് വീഡിയോ റെക്കോർഡിംഗിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കണ്ണാടി മാറ്റിസ്ഥാപിക്കാം തുടർന്ന് നിങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും കാണാൻ കഴിയും എന്നാൽ അപ്പോഴും ഏറ്റവും മികച്ച കാര്യം കണ്ണാടിയിൽ കണ്ണാടിയിൽ സ്വയം പഠിക്കുക കണ്ണാടിയുടെ മുന്നിൽ സംസാരിക്കുക അത് നിങ്ങളെ ആകർഷിക്കുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ സ്വന്തം സംസാരത്തിൽ നിങ്ങൾക്ക് മതിപ്പുളവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെയും ആകർഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശരീരഭാഷ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് പ്രതിഫലിപ്പിക്കുന്നു ഏതെങ്കിലും ആംഗ്യം ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതോ നിഷേധാത്മകമോ ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ അത് നീക്കം ചെയ്യുക സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുക ഇവിടെയും ഉചിതമായ അഭിമുഖ ഗ്രൂപ്പ് ചർച്ചകളുടെ കാര്യത്തിൽ ഞാൻ ഡ്രസ് കോഡുകൾക്കായി മതിയായ സമയം ചെലവഴിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഔപചാരികമായ ഒരു ശവസംസ്കാര പ്രസംഗത്തിൽ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അവർ സാധാരണയായി കറുത്ത വസ്ത്രം ധരിച്ച് വരുന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ സാധാരണയായി അവർ കളർ കോഡിനുപുറമെ വെള്ളയാണ് ഇഷ്ടപ്പെടുന്നത് അതിനാൽ കല്യാണം നിങ്ങൾ ഒരു പ്രഭാഷണം നടത്തുകയാണ് അതിനാൽ നിങ്ങൾ വളരെ ഔപചാരികമായ സ്യൂട്ടിലാണെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത് ചെറിയ കുട്ടികൾക്കായി നിങ്ങൾ ഒരു പ്രഭാഷണം നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു അനൌപചാരിക സംഭാഷണമാണെന്ന് നമുക്ക് പറയാം അതിനാൽ നിങ്ങൾക്ക് ഒരു ടി ഷർട്ടും ജീൻസും ധരിക്കാൻ കഴിയും ഔപചാരിക അനൌപചാരിക അവസരത്തെ ആശ്രയിച്ച് ഉചിതമായ രീതിയിൽ വസ്ത്രം ധരിക്കാം എന്നാൽ എല്ലായ്പ്പോഴും വസ്ത്രം ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഘടകമായിരിക്കരുത് അത് ലയിക്കണം അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് അനുയോജ്യമായിരിക്കണം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പേശികളെ വിശ്രമിക്കുക അവയെ സ്വതന്ത്രമാക്കുക ഉചിതമായ സമയത്ത് എവിടെയെങ്കിലും പുഞ്ചിരിക്കാൻ ശ്രമിക്കുക ഓരോ പ്രധാന പോയിന്റിനും ശേഷം താൽക്കാലികമായി നിർത്തുക നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു താൽക്കാലിക വിരാമം നൽകുക അങ്ങനെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ അവർ പോയിന്റ് ഉൾക്കൊള്ളട്ടെ തുടക്കത്തിൽ സമീപിക്കാവുന്ന ഒരാളുമായി കണ്ണ് സമ്പർക്കം ആവശ്യമാണ് കാരണം നിങ്ങൾ പുതിയത് ആരംഭിക്കുകയാണെങ്കിൽ പ്രേക്ഷകരെ നോക്കുന്നതിൽ പോലും നിങ്ങൾക്ക് അൽപ്പം അസ്വസ്ഥതയുണ്ടാകാം എന്നാൽ പ്രേക്ഷകരിൽ ചിലർ ഉണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഇരിക്കുന്നു നിങ്ങളുടെ സഹപ്രവർത്തകൻ നിങ്ങളുടെ അഭ്യുദയകാംക്ഷിയാണ് നിങ്ങൾ പറയുന്നതെന്തിനും എല്ലായ്പ്പോഴും തല കുലുക്കുന്ന സമീപിക്കാവുന്ന ആ വ്യക്തിയെ നോക്കുക അതിനാൽ തുടക്കത്തിൽ കണ്ണ് സമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കുക പ്രേക്ഷകരെ സമീപിക്കാൻ കഴിയുന്ന ഒരാളുമായി കണ്ണ് സമ്പർക്കം നിലനിർത്തുക ഇത് പ്രാരംഭ ഘട്ടമാണ് പിന്നെ ഞാൻ കണ്ണ് സമ്പർക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒളിക്കുന്നത് ഒഴിവാക്കുക ഒളിക്കുന്നത് ഒഴിവാക്കുക എന്നതുകൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ചിലപ്പോൾ പോഡിയങ്ങൾ വളരെ വലുതാണ് അതിനാൽ ആളുകൾ എന്തുചെയ്യും അവർ അവരെ താഴ്ത്താൻ ശ്രമിക്കും തുടർന്ന് അവർ ഒഴിവാക്കാൻ ശ്രമിക്കും അതിനാൽ അവർ പ്രേക്ഷകരെ നോക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അവർ വളരെ പരിഭ്രാന്തരാകുന്നു അവർ വിയർക്കുന്നു അതിനാൽ പരിഭ്രാന്തരാകുന്നത് ഒഴിവാക്കുക അതിനാൽ ശാന്തത പാലിക്കാൻ ശ്രമിക്കുക ധൈര്യം എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭയത്തിന്റെയും അഭാവം എന്നല്ല അർത്ഥമാക്കുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ ഭയത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും അത് നിങ്ങളുടെ മുഖത്ത് അത്രയധികം കാണിക്കാനാവില്ലെന്നും കാണിക്കുന്നു സഖ്യകക്ഷികളുടെ കണ്ണുകളിലേക്ക് നോക്കുക അതിനാൽ പൊതുവെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു എന്നാൽ നിങ്ങളുടെ എതിരാളിയുടെ ശത്രുക്കളായി കാണപ്പെടുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നതിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ അവരെ നെറ്റിയിൽ നോക്കാൻ ശ്രമിക്കുക ചില ആളുകൾ അൽപ്പം താഴേക്ക് പോയി മൂക്കിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നെറ്റിയിൽ എല്ലായ്പ്പോഴും സുരക്ഷിതമാണ് കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ണുമായി സമ്പർക്കം പുലർത്താൻ ശ്രമിക്കുകയാണെന്ന് അവർക്ക് തോന്നുന്നു എന്നാൽ ഏറ്റവും പ്രധാനം എല്ലാ ആളുകളുമായും നേത്ര സമ്പർക്കം നിലനിർത്താൻ ശ്രമിക്കുക അതിനാൽ എല്ലാവരുമായും നേത്ര സമ്പർക്കം നിലനിർത്താൻ നിങ്ങൾ ശരിക്കും ഭയപ്പെടുന്നുവെങ്കിൽ ത്രികോണ രീതി പിന്തുടരുക എന്ന് അവർ പറയുന്നു അതായത് നിങ്ങൾ കേന്ദ്രത്തിൽ ഒരു വ്യക്തിയെ നോക്കുന്നു അതിനാൽ ആ മൂലയിൽ ഒന്ന് ഈ മൂലയിൽ മറ്റൊന്ന് എന്നാൽ നിങ്ങൾ മാറുകയും നിങ്ങളുടെ നേത്ര സമ്പർക്കം ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവയെല്ലാം നോക്കുന്നുവെന്ന് ആളുകൾക്ക് ഒരു തോന്നൽ ലഭിക്കും ചില ആളുകൾ ചതുര രീതി നിർദ്ദേശിക്കുന്നു അത് ഈ മൂലയിൽ ഒന്ന് ഈ മൂലയിൽ ഒന്ന് മറ്റൊന്നിൽ ഒന്ന് ഈ അറ്റത്ത് ഒന്ന് ഇടയ്ക്കിടെ കേന്ദ്രത്തിൽ ആരെങ്കിലും അതിനാൽ നിങ്ങൾ അവരെ എല്ലാവരെയും നോക്കുന്നു എന്ന തോന്നൽ അത് അവർക്ക് നൽകുന്നു എന്നാൽ നിങ്ങൾ നേത്ര സമ്പർക്കം നിലനിർത്തേണ്ടത് പ്രധാനമാണ് ഇവിടെ നിങ്ങൾ വളരെയധികം ധൈര്യം വികസിപ്പിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ആളുകൾ നിങ്ങളെ വളരെ സൂക്ഷ്മമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടാം പക്ഷേ കണ്ണുമായി സമ്പർക്കം പുലർത്താൻ കൂടുതൽ സൌകര്യപ്രദമായ ഒരാളെ നിങ്ങൾ നോക്കുന്നു അതിനാൽ നിങ്ങളുടെ കണ്ണ് സമ്പർക്കം തിരിക്കുകയും മറ്റേ വ്യക്തിയെ അഭിമുഖീകരിക്കുകയും ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നും ശരീരഭാഷയുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാന കാര്യം നിങ്ങളുടെ ഭാവവും ചലനവുമാണ് അതിനാൽ നിൽക്കുമ്പോൾ ചില ആളുകൾ കാലുകൾ മാറ്റുമായിരുന്നു കാലുകൾ മാറ്റുന്നത് എന്താണ് അതിനാൽ അവർ ഒരു കാൽ നീക്കും തുടർന്ന് അവർ മറ്റൊന്നിലേക്ക് വരും അതിനാൽ അത് മാറുന്ന കാലാണ് അതിനാൽ നിങ്ങൾ ഈ വശം മാറ്റുകയും മറുവശം മാറ്റുകയും ചെയ്യുക തുടർന്ന് ഭ്രാന്തമായ ചലനങ്ങളൊന്നും നടത്തരുത് അതിനാൽ ഈ വശം വേഗത്തിൽ നീങ്ങുകയും തുടർന്ന് ഈ വശം വേഗത്തിൽ വരികയും ചെയ്യരുത് തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുത് അതിനാൽ ചില ആളുകൾ തിരികെ പോകുകയും തുടർന്ന് അവർ മുന്നോട്ട് വരികയും ചെയ്യുന്നു അതിനാൽ തിരികെ പോയി മുന്നോട്ട് വരിക വാസ്തവത്തിൽ ചില ആളുകൾ നൃത്തം ചെയ്യുന്നതുപോലെ കാണപ്പെടുന്നു അതിനാൽ അവർ ഇവിടെ നീങ്ങുന്നു അവർ അവിടേക്ക് നീങ്ങുന്നു അവർ അവരുടെ പരിഭ്രാന്തിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന രീതി പക്ഷേ പ്രേക്ഷകർക്ക് ഇത് വളരെ തമാശയായി തോന്നുന്നു അതിനാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ചലനങ്ങൾ നടത്തുകയും നിങ്ങൾ വളരെ പരിഭ്രാന്തനാണെന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കുക കാലുകൾ നിലത്ത് ഉറപ്പിക്കാൻ ശ്രമിക്കുക തുറന്ന ഭാവം ഉപയോഗിക്കുക അതിനാൽ കൈ തുറന്നിടുക ഊന്നലിനായി കൈകൾ ഉപയോഗിച്ച് ആംഗ്യങ്ങൾ ഉപയോഗിക്കുക അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഊന്നൽ നൽകാൻ നിങ്ങൾക്ക് കൈ ഉപയോഗിക്കാം സ്വാഭാവിക സ്വരത്തിൽ സംസാരിക്കുക അതിനാൽ നിങ്ങൾ തെറ്റായ ഉച്ചാരണത്തിൽ സംസാരിക്കേണ്ടതില്ല അതിനാൽ ഞാൻ അങ്ങനെ സംസാരിച്ചാൽ ആളുകൾ വളരെ മതിപ്പുളവാക്കുമെന്നും നിങ്ങൾക്ക് സാധാരണമായി വരുന്ന സ്വാഭാവിക സ്വരത്തിൽ സംസാരിക്കില്ലെന്നും പ്രേക്ഷകർ അത് വളരെയധികം ഇഷ്ടപ്പെടുമെന്നും നിങ്ങൾ കരുതുന്നു അതിനാൽ അത് മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾ കുറച്ച് ആത്മവിശ്വാസം വളർത്തിയെടുത്തുകഴിഞ്ഞാൽ എല്ലായ്പ്പോഴും പ്രേക്ഷകരെ അഭിമുഖീകരിക്കാനും പ്രേക്ഷകരിൽ ഓരോ വ്യക്തിയെയും നോക്കാനും ശ്രമിക്കുക നിങ്ങൾ നോട്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നോട്ടുകൾ നോക്കേണ്ടതുണ്ടെങ്കിൽ ഇടയ്ക്കിടെ നോട്ടുകൾ നോക്കുക അതിനർത്ഥം നിങ്ങൾ എല്ലായ്പ്പോഴും നോട്ടുകൾ നോക്കി വായിക്കില്ല എന്നാണ് അതിനാൽ പ്രേക്ഷകരും നിങ്ങളും തമ്മിലുള്ള കണ്ണിന്റെ സമ്പർക്കം നിങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് വിനാശകരമാണ് അതിനാൽ നിങ്ങളുടെ സംസാരത്തിൽ അവർക്ക് താൽപര്യം നഷ്ടപ്പെടും അതിനാൽ കുറിപ്പുകൾ നോക്കൂ പക്ഷേ നിങ്ങളുടെ കുറിപ്പുകളിൽ എന്താണുള്ളതെന്ന് നിങ്ങൾ വളരെ സമഗ്രമായിരിക്കണം അതിനാൽ അവിടെയാണ് നിങ്ങളുടെ തയ്യാറെടുപ്പ് വരുന്നത് നിങ്ങൾ നന്നായി തയ്യാറാക്കുമ്പോൾ കുറിപ്പുകളിൽ ഉള്ളത് ഒരുതരം ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അതിനാൽ നിങ്ങൾ ചില പ്രധാന വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ എന്തെങ്കിലും പോയിന്റ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇടയ്ക്കിടെ അവ നോക്കുന്നു പക്ഷേ നിങ്ങൾ എല്ലാം കാണുകയും പ്രേക്ഷകർക്ക് അത് വായിക്കുകയും ചെയ്യില്ല കാരണം നിങ്ങൾക്ക് കണ്ണിന്റെ സമ്പർക്കവും പുഞ്ചിരിയും നഷ്ടപ്പെടുന്നു തുടർന്ന് ഞാൻ പറഞ്ഞതുപോലെ വികിരണം ചെയ്യുന്ന പുഞ്ചിരി വളരെ പ്രധാനമാണ് നിങ്ങൾ ഒരു പവർ പോയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മൌസ് സൂക്ഷിക്കുന്നതുപോലുള്ള മറ്റൊരു പ്രവണതയുണ്ട് അതിനാൽ നീങ്ങുമ്പോൾ നിങ്ങൾക്ക് മൌസിനെ ശ്രദ്ധാപൂർവ്വം നോക്കാം തുടർന്ന് നിങ്ങൾക്ക് അത് അമർത്താം ഒന്നുകിൽ നിങ്ങൾ നോക്കാതെ തന്നെ മൌസ് കൈകാര്യം ചെയ്യാൻ പരിശീലിക്കാം അതിനാൽ അതിൽ വിദഗ്ദ്ധനാകുക അല്ലെങ്കിൽ മൌസിൽ ക്ലിക്കുചെയ്യാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുക അത് ഒട്ടും ഉപയോഗിക്കരുത് അല്ലെങ്കിൽ റിമോട്ട് ഉപയോഗിക്കരുത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് പിപിടി നീക്കാൻ റിമോട്ട് ഉണ്ട് അതിനാൽ റിമോട്ട് ഉപയോഗിക്കുക ആ റിമോട്ട് കയ്യിൽ സൂക്ഷിക്കുക അത് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ശരീരഭാഷയിൽ വീണ്ടും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചെയ്യരുതാത്തവ അതിനാൽ ഇപ്പോൾ ഒന്നും മുറുകെ പിടിക്കരുത് നിങ്ങളുടെ ഭയത്തിൽ പോഡിയം ഉണ്ടെന്ന് നമുക്ക് പറയാം ഇത് പിടിക്കരുത് മൈക്ക് പിടിക്കരുത് അതിനാൽ നിങ്ങളുടെ ഹാൻഡ്ബാഗ് ഫയൽ പിടിക്കരുത് അത് നിങ്ങൾ വീണ്ടും പരിഭ്രാന്തനാണെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആളുകൾ ശരിക്കും ഭയപ്പെടുന്നു അതിനാൽ അവർ വീണ്ടും ഒരു ബെഞ്ച് ഉണ്ടെന്ന് കരുതുക അവർ ബെഞ്ചിൽ പിടിക്കുന്നു തുടർന്ന് നിങ്ങൾ ഒരു പവർ പോയിന്റ് ഉപയോഗിക്കുമ്പോഴോ കുറിപ്പുകൾ ഉപയോഗിക്കുമ്പോഴോ അതിൽ നിന്ന് നേരിട്ട് വായിക്കരുത് അതിനാൽ നിങ്ങൾ സമഗ്രവും അവ ഒരുതരം ഉന്മേഷദായകമായ പോയിന്റുകളായും ഉള്ളതിനാൽ നിങ്ങൾ അതിൽ നിന്ന് വായിക്കേണ്ടതില്ല സ്ക്രീനിൽ നോക്കുന്നത് തുടരരുത് അതിനാൽ നിങ്ങൾ എല്ലായ്പ്പോഴും സ്ക്രീനിൽ നോക്കുമ്പോൾ വീണ്ടും പിപിടി നൽകുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് നിങ്ങളുമായുള്ള കണ്ണിന്റെ സമ്പർക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യും നിങ്ങളെ പരിശോധിക്കുന്ന ഒരു പ്രൊഫസർ ഉണ്ടെങ്കിലോ വിവയുടെയും ചില പ്രോജക്ട് അവതരണങ്ങളുടെയും കാര്യത്തിലെന്നപോലെ ഒരു എക്സാമിനർ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് പ്രൊഫസറെ മാത്രം നോക്കാനുള്ള പ്രവണതയുണ്ട് അതിനാൽ പ്രേക്ഷകർ പൂർണ്ണമായും ഇവിടെ ഇരിക്കുന്നു നിരവധി വിദ്യാർത്ഥികളും മറ്റ് ജീവനക്കാരും മറ്റ് ഫാക്കൽറ്റികളും അവിടെയുണ്ട് എന്നാൽ നിങ്ങൾ പരീക്ഷകരെ മാത്രം നോക്കുന്നു അവരെ മാത്രം ബോധ്യപ്പെടുത്തണമെന്ന് നിങ്ങൾ കരുതുന്നു അത് വീണ്ടും പരിഭ്രാന്തിയുടെ മറ്റൊരു വശമാണ് വാസ്തവത്തിൽ പരീക്ഷകർ ഇരിക്കുകയാണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ മറക്കണം നിങ്ങൾ അവരെ വളരെയധികം നോക്കുന്ന പ്രേക്ഷകരിൽ ഒരാളായി നോക്കുന്നതുപോലെ നിങ്ങൾ അവരെ നോക്കണം പരീക്ഷകനെ മാത്രം നോക്കുന്നത് അവരെ നാണം കെടുത്തും ചില ആളുകൾ നിങ്ങൾ അവരെ നോക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെന്ന് അവർക്കറിയാം പരിഭ്രാന്തരാകുകയും അല്ലെങ്കിൽ അവരെ നോക്കി നിങ്ങൾ അവരെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ അറിയുകയും ചെയ്യുന്നതിനാൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ശബ്ദത്തിന്റെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ശബ്ദ നിലവാരം ഉച്ചത്തിലും വ്യക്തമായും സംസാരിക്കുന്നു അതിനാൽ വാസ്തവത്തിൽ വിദഗ്ധ പ്രഭാഷകർ പ്രൊഫഷണലുകൾ അവർ ആദ്യം ചെയ്യുന്നത് മൈക്ക് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക എന്നതാണ് മൈക്ക് ഇല്ലെങ്കിൽ അവർ അവസാന വരിയിലെ പ്രേക്ഷകരോട് അവ കേൾക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും അതിനാൽ അവർ ചോദിക്കും ഞാൻ നിങ്ങൾക്ക് കേൾക്കാനാകുമോ എന്ന് നിങ്ങൾക്ക് കേൾക്കാനാകുമോ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ മൈക്കിൽ ശബ്ദം വർദ്ധിപ്പിക്കുകയോ ഉച്ചത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവർ മുന്നോട്ട് പോകും അതിനാൽ ഉച്ചത്തിൽ സംസാരിക്കുക വ്യക്തമായി ഉച്ചരിക്കുക എന്നതിനർത്ഥം ഓരോ വാക്കും കുഴപ്പിക്കരുത് ഒഴിവാക്കരുത് തിടുക്കത്തിൽ സംസാരിക്കരുത് പതുക്കെ സംസാരിക്കുക എന്നാൽ ആത്മവിശ്വാസത്തോടെ അതിനാൽ ചില ആളുകൾ പതുക്കെ സംസാരിക്കാൻ ഭയപ്പെടുന്നു കാരണം അത് അവരുടെ പരിഭ്രാന്തി വെളിപ്പെടുത്തുമെന്ന് അവർ കരുതുന്നു മന്ദഗതിയിലാക്കുകയോ ഉച്ചത്തിൽ സംസാരിക്കുകയോ ചെയ്തുകൊണ്ട് പ്രധാന കാര്യങ്ങൾ ഊന്നിപ്പറയേണ്ടത് പ്രധാനമാണ് അതിനാൽ നിങ്ങൾ മന്ദഗതിയിലാകുമ്പോൾ ആളുകൾ നിങ്ങൾ പറയാൻ പോകുന്നത് പിന്തുടരാൻ ശ്രമിക്കും നിങ്ങൾ വീണ്ടും ശബ്ദം ഉയർത്തുമ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും പറയുകയാണെന്ന് ആളുകൾക്ക് അറിയാം നിങ്ങൾ ചെയ്ത ഒരു പൊതു പ്രോജക്റ്റിനായി അഞ്ച് പേർ ഒരു അവതരണം നൽകുന്നതുപോലുള്ള ഒരു ഗ്രൂപ്പ് അവതരണമാണ് നിങ്ങൾ നൽകുന്നതെങ്കിൽ ഓരോരുത്തരും സംസാരിക്കുന്നത് അഞ്ച് മിനിറ്റ് എന്ന് പറയാം ഇപ്പോൾ നിങ്ങളുടെ സമയം കഴിഞ്ഞുകഴിഞ്ഞാൽ അതിനാൽ നമുക്ക് ഇപ്പോൾ പറയാം എന്റെ സുഹൃത്തേ അതിനാൽ ഈ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന്റെ ഈ വശത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം എന്നാൽ ഈ പ്രോജക്റ്റിന് മറ്റ് നാല് വശങ്ങളുണ്ട് അടുത്തത് എൻറെ സുഹൃത്ത് അങ്ങനെയുള്ളവർ വന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യും അതിനാൽ അടുത്ത പ്രഭാഷകനിലേക്ക് മാറ്റം വരുത്തുക പ്രത്യേകിച്ച് ടീം അവതരണത്തിൽ അത് പ്രേക്ഷകരെ സുഗമമായി പിന്തുടരാൻ സഹായിക്കുന്നു നിങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ഇരിക്കുന്നതുപോലെ നിങ്ങളുടെ സംസാരത്തിലൂടെ ശബ്ദ നിലവാരം ഉയർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തുചെയ്യരുത് അതിനാൽ ചില ആളുകൾ അവരുടെ പരിഭ്രാന്തി അവസാനിപ്പിക്കുന്നതിനായി കഴിയുന്നത്ര വേഗത്തിൽ പ്രസംഗം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു ഇല്ല എന്നാൽ നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നു എന്നാൽ നിങ്ങൾ മന്ദഗതിയിലുള്ളവരും ബോധപൂർവ്വമുള്ളവരുമായതിനാൽ നിങ്ങൾക്ക് ശാന്തത പാലിക്കാനും സംയമനം പാലിക്കാനും കഴിയും അതിനാൽ നിങ്ങളുടെ പ്രസംഗത്തിലൂടെ നിങ്ങൾ ഉയർത്തുമെന്നും കുറഞ്ഞ തെറ്റുകൾ ഉപയോഗിച്ച് അത് വേഗത്തിൽ ചെയ്യുമെന്നും കരുതരുത് പക്ഷേ അത് മറ്റൊരു വഴിയായിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ ചില ആളുകൾ കുറിപ്പുകളിൽ നിന്നും സ്ക്രീനിൽ നിന്നും നേരിട്ട് വായിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് ഒരിക്കലും വളരെ വേഗത്തിൽ സംസാരിക്കരുത് മനഃപൂർവ്വം വളരെ പതുക്കെ സംസാരിക്കരുത് ചില ആളുകൾ 10 മിനിറ്റ് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല അതിനാൽ നിങ്ങൾ 10 മിനിറ്റ് മുഴുവൻ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്തപക്ഷം അടയാളങ്ങൾ കണ്ടെത്താനാകും അതിനാൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള ആശയങ്ങൾ മാത്രമേ 10 മിനിറ്റ് വരെ വലിച്ചിഴക്കപ്പെടുകയുള്ളൂ അവർ വളരെ മനഃപൂർവ്വം പതുക്കെ സംസാരിക്കുന്നു മന്ദഹസിക്കുന്നത് നിങ്ങൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന എന്തെങ്കിലും പറയുന്നത് പോലെയാണ് അതിനാൽ നിങ്ങളുടെ ചുണ്ടുകൾ ഒരുതരം കുസൃതിയാണ് പക്ഷേ ആർക്കും കേൾക്കാൻ കഴിയില്ല ഒരിക്കലും സമയപരിധി കവിയാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ പ്രഭാഷണം സമയത്തിന് മുമ്പ് പൂർത്തിയാക്കുകയാണെങ്കിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല നൽകിയിരിക്കുന്ന സമയത്തിന് മുമ്പ് നിങ്ങൾ പൊതുപ്രസംഗം പൂർത്തിയാക്കുകയാണെങ്കിൽ എന്നാൽ നിങ്ങൾ സമയപരിധി ലംഘിക്കുകയാണെങ്കിൽ ആളുകൾ അസന്തുഷ്ടരാകും മിക്ക അധ്യാപകരും ചെയ്യാൻ ശ്രമിക്കുന്നതുപോലെ ഒരു മിനിറ്റ് കൂടി ഞാൻ ഇത് പൂർത്തിയാക്കാൻ പോകുന്നുവെന്ന് അവർ പറയും എന്നതിനാൽ ഈ തെറ്റ് ഒരിക്കലും ചെയ്യരുത് അതിനാൽ 10 മിനിറ്റ് കഴിഞ്ഞു അവർ ഒരു അര മിനിറ്റ് കൂടി പറയും അതിനാൽ മറ്റൊരു 15 മിനിറ്റ് കൂടി പോകും അതിനാൽ ആ 1 മിനിറ്റ് ചിലപ്പോൾ 1 മണിക്കൂർ വരെ നീണ്ടുനിൽക്കും നിങ്ങൾ പ്രേക്ഷകരെ കൊല്ലുകയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ അവർ വാച്ചിൽ നോക്കാൻ തുടങ്ങും അതിനാൽ അവർ വളരെയധികം അസ്വസ്ഥമായ ശരീര ചലനം ഉണ്ടാക്കും ചില ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ പുറത്തിറങ്ങുക പോലും ചെയ്യും അവർ പുറത്തുപോകാൻ മടിക്കില്ല അതിനാൽ നിങ്ങൾ കുറച്ച് സമയപരിധി പറയുമ്പോൾ അതിനാൽ സമയപരിധിയിൽ ഉറച്ചുനിൽക്കുക സമയപരിധി കവിയരുത് ഇപ്പോൾ അവസാനത്തെ കുറച്ച് പോയിന്റുകളിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും പ്രേക്ഷകരെ പിന്തിരിപ്പിക്കരുത് എന്നതാണ് അതിനാൽ ബോർഡിൽ എന്തെങ്കിലും കാണിക്കുന്ന എന്തെങ്കിലും എഴുതുന്നതിന് പോലും അതിനാൽ നിങ്ങളുടെ മുഖത്തിന്റെ ഒരു ഭാഗമെങ്കിലും ചെയ്യുമ്പോൾ പോലും കുറഞ്ഞത് ഒരു കണ്ണെങ്കിലും കോൺടാക്റ്റ് പൂർണ്ണമായും പുറകോട്ട് തിരിഞ്ഞ് നിങ്ങൾ വളരെ ദുർബലരാണെന്ന മട്ടിൽ ചരിഞ്ഞു അപ്പോൾ നിങ്ങൾ തയ്യാറല്ല അതിനാൽ അത് വീണ്ടും വളരെ മോശം മതിപ്പ് സൃഷ്ടിക്കുകയും കൈ തുറന്നിരിക്കുകയും ചെയ്യുന്നു കൈകൾ പോക്കറ്റുകളിൽ ഇടരുത് അത് വീണ്ടും വളരെ മോശം പ്രതിരോധ ആംഗ്യമായി മാറുന്നു വാസ്തവത്തിൽ പരസ്യമായി സംസാരിക്കുന്ന വാക്കാലുള്ള അവതരണത്തിന്റെ കാര്യത്തിൽ ആളുകൾ ചോദിക്കുന്ന നിർണായക ചോദ്യങ്ങളിലൊന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്റെ കൈകൾ കൊണ്ട് എന്തുചെയ്യണം എന്നതാണ് നിങ്ങൾക്ക് പരിഭ്രാന്തനാണെങ്കിൽ അത് നിങ്ങളുടെ പോക്കറ്റിൽ ഇടരുത് നിങ്ങൾക്ക് കൈപ്പത്തികൾ ചെറുതായി വിശ്രമിക്കാം പക്ഷേ അത് ഉറച്ചുനിൽക്കാതെ നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് വിശ്രമിക്കാം എന്നാൽ ഇപ്പോൾ ഞാൻ സുഖമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ വിശ്രമിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് കാണിക്കാൻ കൈപ്പത്തികൾ തുറക്കുക തുടർന്ന് നിങ്ങൾക്ക് മറയ്ക്കാൻ ഒന്നുമില്ല നിങ്ങൾ വളരെ സത്യസന്ധവും സത്യസന്ധവുമായ സംഭാഷണം നൽകുന്നു നിങ്ങൾ നന്നായി തയ്യാറാണ് അതിനാൽ പോക്കറ്റുകളിൽ അവ പിൻഭാഗത്ത് വയ്ക്കുകയോ കൈകൾ മുറിച്ചുകടക്കുകയോ എല്ലായ്പ്പോഴും കൈകൾ കടന്ന് സംസാരിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കാൻ നിങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോൺ വെർബൽ സ്പർശം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു ഇപ്പോൾ ആശയവിനിമയത്തിന്റെ വാക്കാലുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തും മികച്ച ആംഗ്യമാണ് അതിനാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് പരസ്പരബന്ധിതമാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് മികച്ച ആംഗ്യമായിരിക്കും അതിനാൽ ആളുകൾ അത് നിശബ്ദമാക്കുമ്പോഴും അവർ വീഡിയോയിൽ നിങ്ങളുടെ കാര്യം കാണുകയാണെന്ന് പറയട്ടെ അവർ അത് നിശബ്ദമാക്കുകയും അവർ കാണുകയും ചെയ്താൽ നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് കൂടുതലോ കുറവോ ഊഹിക്കാൻ അവർക്ക് കഴിയണം അതിനാൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് ആശയവിനിമയത്തിന്റെ ഏറ്റവും മികച്ച രൂപവും അതിന്റെ അവസാനത്തിൽ അത് ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗവുമാണ് നിങ്ങൾ നിങ്ങളുടെ കൈ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് വാക്കാലുള്ളതും അല്ലാത്തതുമായ ആശയവിനിമയത്തിൽ ശരീരത്തിന്റെ ചലനം ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കുട്ടിയെപ്പോലെ സ്വമേധയാ ആയിരിക്കുക എന്ന് ഞാൻ പറയും കുട്ടി കൈ നീക്കുന്ന രീതി പോലെ വിഷമിക്കുന്നില്ല പക്ഷേ എല്ലായ്പ്പോഴും അത് നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു നിങ്ങൾ കുട്ടിയുമായി അടുപ്പത്തിലാണെങ്കിൽ അത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും പറയുന്നതിന് മുമ്പുതന്നെ അത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അത് ആഗ്രഹിക്കുന്നില്ല അത് ആഗ്രഹിക്കുന്നില്ല തുടർന്ന് എന്താണ് എറിയേണ്ടതെന്ന് അവർക്കറിയാം കൈ കാലുകളുടെ ചലനത്തെ ആംഗ്യം കാണിക്കുന്നു അവയെല്ലാം വളരെ സ്വാഭാവികമായും സ്വാഭാവികമായും വരുന്നു വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇത് വളരെ സ്വാഭാവികമായും വളരെ സ്വാഭാവികമായും ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് പൊതുപ്രസംഗത്തിലോ വാക്കാലുള്ള അവതരണത്തിലോ ഗ്രൂപ്പ് ചർച്ചയിലോ അഭിമുഖത്തിലോ ആകട്ടെ സ്വാഭാവികമായും സ്വാഭാവികമായും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ അഭിമുഖ പാനലിന് മുന്നിൽ പരിഭ്രാന്തി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പരിഭ്രാന്തരായ ആളുകളെ അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സ്വമേധയാ ആയിത്തീരുമ്പോൾ നിങ്ങൾ നൽകുന്ന സംസാരവും നിങ്ങൾ ആസ്വദിക്കും ഇപ്പോൾ പ്രശസ്ത കവയിത്രിയായ മായ ആഞ്ചലോയുടെ ഒരു സമാപന ചിന്ത എന്ന നിലയിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക നിങ്ങൾ പറഞ്ഞത് ആളുകൾ മറക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി ഇതിനർത്ഥം നിങ്ങളുടെ സംസാരത്തിന്റെ വാക്കാലുള്ള ഭാഗം പൂർണ്ണമായും മറന്നുപോയേക്കാം നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ആളുകൾ മറക്കും അതിനാൽ വാക്കേതര ഭാഗം പോലും കൈ ആംഗ്യവും അതെല്ലാം അതിനാൽ നിങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു എന്നത് പോലും മറക്കാൻ കഴിയും അതിനാൽ ആളുകളും മറന്നേക്കാം എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട് പക്ഷേ നിങ്ങൾ അവരെ എങ്ങനെ അനുഭവിപ്പിക്കുന്നു എന്നത് ആളുകൾ ഒരിക്കലും മറക്കില്ല സംസാരത്തിൻ്റെ അവസാനം അത് വളരെ ശക്തമായ ഒരു സംഭാഷണമായിരുന്നുവെങ്കിൽ നിങ്ങൾ അവരെ വൈകാരികമായി ചലിപ്പിച്ചോ നിങ്ങളുടെ അഭിനിവേശം പ്രകടിപ്പിക്കുകയും അവരെ വികാരഭരിതരാക്കുകയും ചെയ്തോ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നത് നിങ്ങളുടെ നാവിലൂടെ കടന്നുപോയി തുടർന്ന് അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും ചെയ്തു നിങ്ങൾക്ക് അത് ഉറപ്പുനൽകാൻ കഴിയുമെങ്കിൽ മൊത്തത്തിൽ അവർക്ക് സുഖം തോന്നുന്നുവെങ്കിൽ ഞാൻ ഈ വ്യക്തിയെ ശ്രദ്ധിക്കുന്നു പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞാൻ ഈ വ്യക്തിയെ ശ്രദ്ധിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനാണ് അതിനാൽ ആ അഭിമുഖം നൽകാൻ പോകുന്ന മറ്റേതെങ്കിലും ആളുകളിൽ നിന്ന് നിങ്ങളെ ആത്യന്തികമായി വേർതിരിക്കുന്ന വൈകാരിക ആത്മീയ ഭാഗമാണിത് അതിന്റെ അവസാനത്തിൽ എനിക്ക് സുഖം തോന്നുന്നുവെന്ന് അവർക്ക് തോന്നുന്നു ഇത് കേട്ടതിനുശേഷം എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു കാരണം ആളുകൾ മറ്റെല്ലാ കാര്യങ്ങളും മറക്കും പക്ഷേ നിങ്ങൾ അവരെ എങ്ങനെ അനുഭവിപ്പിച്ചുവെന്ന് അവർ ഓർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുക തുടർന്ന് എന്നെ വിട പറയട്ടെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി വിഷ്വലുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ള അവതരണത്തെക്കുറിച്ചുള്ള ഒരു മൊഡ്യൂളുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും ഒരിക്കൽക്കൂടി നന്ദി